എനർജി കൺസെർവഷന്റെയും വേസ്റ്റ് ഹീറ്റ് റിക്കവറിയുടെയും അടുത്ത പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഹീറ്റ് പമ്പുകളെക്കുറിച്ചുള്ള ചർച്ച തുടരാൻ പോകുകയാണ് നമ്മൾ ഇന്നലെ ഹീറ്റ് പമ്പുകളെക്കുറിച്ചുള്ള നമ്മളുട ചർച്ച ആരംഭിച്ചു കുറഞ്ഞ ടെമ്പറേച്ചറിൽ നമുക്ക് ലഭ്യമാകുന്ന ഊർജ്ജത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനുള്ള ഒരു മാർഗമാണ് ഹീറ്റ് പമ്പ് എന്നത് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്തെന്നാൽ നിങ്ങൾ ഒരു ഹീറ്റ് പമ്പ് ഉപയോഗിച്ച് ഊർജം അപ്ഗ്രേഡ് ചെയുന്നു തീർച്ചയായും അത് സൌജന്യമായി ലഭിക്കില്ല നമ്മൾ ഒരു വേപ്പർ കംപ്രഷൻ സൈക്കിൾ ഉപയോഗിക്കുന്നു ഇത് ഒരു സാധാരണ റഫ്രിജറേഷൻ സൈക്കിളാണ് ഇവിടെ റഫ്രിജറേഷനും ഹീറ്റ് പമ്പും തമ്മിലുള്ള വ്യത്യസം എന്തെന്നാൽ ഇവിടെ നമ്മളുടെ ലക്ഷ്യം താഴ്ന്ന ഊഷ്മാവിൽ ഹീറ്റ് നീക്കം ചെയുന്ന റഫ്രിജറേഷനെ അപേക്ഷിച്ചു ഉയർന്ന ഊഷ്മാവിൽ തെർമൽ ഊർജ്ജം ഉണ്ടായിരിക്കുക എന്നതാണ് എന്നാൽ അടിസ്ഥാനപരമായി സൈക്കിൾ പ്രവർത്തിക്കുന്ന രീതി ഒന്നുതന്നെയാണ് ഇത് ഒരു വേപ്പർ കംപ്രഷൻ സൈക്കിളാണ് നമ്മൾ ആദ്യം ചെയ്തത് ഈ ആമുഖത്തോടെ ആദ്യത്തെ ഉദാഹരണം ചർച്ച ചെയ്തു അത് എയർ ടു എയർ ഹീറ്റ് പമ്പ് ആണ് അത് നമ്മുക്ക് വർഷം മുഴുവനും എയർ കണ്ടിഷനിങ്ന് ഉപയോഗിക്കാം അതിനാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വരച്ച സ്കെച്ച് ഒന്നുകൂടി നോക്കാം ഇത് ഒരു ഹീറ്റ് പമ്പ് ആയിരുന്നു ഇത് ഒരു മുറിയാണ് വർഷം മുഴുവനും എയർ കണ്ടിഷനിങ്നായി ഉപയോഗിക്കുന്ന ഒരു ഹീറ്റ് പമ്പാണ് ഇത് അതിനാൽ വേനൽക്കാലത്ത് തണുപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ നമുക്ക് ഉയർന്ന ടെമ്പറേച്ചരിലുള്ള അന്തരീക്ഷ വായു തണുപ്പിക്കേണ്ടതുണ്ട് അതിനാൽ ഒരു സാധാരണ വേപ്പർ കംപ്രഷൻ സൈക്കിളിൽ നിങ്ങൾക്ക് തണുപ്പ് ലഭിക്കുന്ന രീതി അല്ലെങ്കിൽ നിങ്ങൾക്ക് തണുപ്പിക്കൽ ലഭിക്കുന്ന സ്ഥലമാണ് അവയുടെ സൈക്കിളിൽ ഇവാപറേഷൻ ഉപകരണം ഉള്ളത് അവിടെ റഫ്രിജറന്റ് താഴ്ന്ന പ്രഷറിൽ ലിക്വിഡ് നിന്ന് വേപറിലേക്ക് മാറുന്നു അതിനാൽ നമ്മൾ ചെയ്യുന്നത് മുറിക്കുള്ളിൽ ഇവാപറേഷൻ യൂണിറ്റ് ഉണ്ടായിരിക്കുകയും ചൂടുള്ള അന്തരീക്ഷ വായു ഇവാപറേടർന് മുകളിലൂടെ പോകുകയും ചെയ്യുന്നു അതിനാൽ പുറത്തുവരുന്നത് തണുത്ത വായുവാണ് അത് മുറി തണുപ്പിക്കാൻ ഉപയോഗിക്കാം അതിനാൽ അടിസ്ഥാനപരമായി ഇത് സാധാരണ മുറിയിലെ എയർകണ്ടീഷണറുകൾ പ്രവർത്തിക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് കണ്ടൻസർ ഉള്ള മറ്റേ അറ്റത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോകാം ഉയർന്ന പ്രഷറിൽ നിന്നും വേപ്പർ മുതൽ ലിക്വിഡ് വരെ ശീതീകരണത്തെ കണ്ടെൻസിങ് ഈ താപ വിനിമയത്തിലൂടെ കടന്നുപോകുമ്പോൾ റഫ്രിജറന്റ് കണ്ടെൻസിങ് പകരം ലിക്വിഡ് ആയോ തണുത്ത ലിക്വിഡയോ ഉപയോഗിക്കുന്ന അതേ ആംബിയന്റ് വായുവാണ് ഇത് എടുക്കുന്ന ഹീറ്റ് ഉപേക്ഷിക്കുന്നത് അന്തരീക്ഷ വായുവിലൂടെ മുകളിലേക്ക് കണ്ടൻസർ യൂണിറ്റിൽ നിന്ന് പുറത്തുവരുന്നത് ചൂടായ വായുവാണ് ഇപ്പോൾ ഈ ചൂടായ വായു മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാമെന്ന് ഓർക്കുക നിങ്ങൾ ഒരു ചെറിയ വ്യാവസായിക യൂണിറ്റിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഈ ചൂടുള്ള വായുവിന് ധാരാളം ആപ്ലിക്കേഷനുകൾ ഉണ്ടാകും ശരിയാണ് അതിനാൽ ഒരു വശത്ത് നമുക്ക് തണുപ്പ് ലഭിക്കുന്നു മറുവശത്ത് ഉയർന്ന ടെമ്പറേച്ചറിൽ ചൂടായ വായുവും നമുക്ക് ലഭിക്കും അതിനാൽ ഇത് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഉയർന്ന ഗ്രേഡ് തെർമൽ ഊർജ്ജമാണ് ഇപ്പോൾ ശൈത്യകാലത്ത് സംഭവിക്കുന്നത് ഈ 4 വേ സ്വിച്ച് മറ്റൊരു വഴിക്ക് തിരിയുന്നു അതിനാൽ ഫ്ലോ ലൂപ്പ് റിവേഴ്സ് ആകുന്നു കംപ്രസ്സറിലേക്ക് പോകുന്നത് യഥാർത്ഥത്തിൽ ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നിന്ന് പുറത്തുവരുന്ന റഫ്രിജറന്റാണ് അതിനാൽ പ്രധാനമായും സംഭവിക്കുന്നത് ഇവാപറേറ്റർ കണ്ടൻസർ സ്വിച്ചു ചെയുന്നു മുറിക്കുള്ളിലെ ഹീറ്റ് എക്സ്ചേഞ്ചർ ഒരു കണ്ടൻസറും പുറത്തുള്ള ഹീറ്റ് എക്സ്ചേഞ്ചർ ഇവാപറേറ്ററും ആയി മാറുന്നു അതിനാൽ നമുക്ക് ഇവിടെ എന്താണ് ലഭിക്കുന്നത്

അന്തരീക്ഷ വായു ഇപ്പോൾ തണുപ്പാണ് എന്നത് ഒഴികെയുള്ള അതേ കാര്യം തന്നെ ലഭിക്കും കാരണം പുറത്ത് ശൈത്യകാലമായണ് നമ്മൾ വായു ചൂടാക്കാൻ ആഗ്രഹിക്കുകയും ചെയുന്നു അതിനാൽ മുറിക്കുള്ളിൽ നമ്മൾക്ക് കൂടുതൽ സുഖപ്രദമായ സാഹചര്യങ്ങളുണ്ട് അതിനാൽ താഴ്ന്ന ഊഷ്മാവിലുള്ള ഈ ആംബിയന്റ് എയർ കണ്ടൻസറിനു മുകളിലൂടെ പോകുമ്പോൾ അത് ചൂട് എടുക്കുകയും ചൂടായ വായു ആയി പുറത്തുവരുകയും ചെയ്യുന്നു ഇത് ഇപ്പോൾ നിങ്ങൾക്ക് മുറി ചൂടാക്കാനും കൂടുതൽ സുഖകരമാക്കാനും ഉപയോഗിക്കാം ഇവാപറേറ്ററിന്റെ ഭാഗത്തു സിമുലേറ്റ് ചെയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതെ പുറത്ത് തണുത്ത വായു ആണ് പക്ഷേ അത് അകത്തു വന്നാൽ തണുത്ത വായു വീണ്ടും ചൂട് പുറംതള്ളുന്നു അതിനാൽ റഫ്രിജറന്റിന് ഇവപറേറ്റ് ചെയൻ സാധിക്കും അതിനാൽ പുറത്തുവരുന്നത് ശീതീകരിച്ച വായുവാണ് ഇത് കുറഞ്ഞ ടെമ്പറേച്ചറിൽ ആണ് പുറത്തുള്ള അന്തരീക്ഷത്തേക്കാൾ താഴ്ന്ന ടെമ്പറേച്ചറിൽ ആണ് ഇപ്പോൾ ഈ ശീതീകരിച്ച വായുവിന് മറ്റ് നിരവധി ആവശ്യങ്ങളും ധാരാളം മറ്റ് ആപ്ലിക്കേഷനുകളും ഉണ്ടാകാം അതിനാൽ ഒരു വശത്ത് റൂം എയർ കണ്ടീഷനിംഗിനായി നമ്മൾ ഇവിടെ ചൂടുണ്ടാകുന്നു എന്നാൽ അതേ സമയം മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന തണുത്ത വായുവും നമ്മൾക്ക് ലഭിക്കുന്നു ഒരു ഉദാഹരണം നമുക്ക് നോക്കാം നമുക്ക് ഒരു ആപ്ലിക്കേഷനിൽ എവിടെയാണ് അത്തരമൊരു യൂണിറ്റിലെ ശീതീകരിച്ച വായുവും ചൂടായ വായുവും ഒരേസമയം ഉപയോഗിക്കാം സാധിക്കുന്നത് അതിനാൽ അവസാനത്തെ പ്രഭാഷണം നമ്മൾ ഇവിടെയാണ് നിർത്തിയത് പെട്ടന്ന് റീക്യാപ്പ് ചെയ്ത ശേഷം നമ്മൾക്ക് അത്തരത്തിലുള്ള മറ്റൊരു ആപ്ലിക്കേഷനിലേക്ക് പോകാം ഇത് വാട്ടർ ഹീറ്റ് പമ്പിന്റെ ഒരു ഉദാഹരണമാണ് അതിനാൽ നമ്മൾ സംസാരിക്കുന്ന ഈ ഉദാഹരണം നീന്തൽക്കുളം ചൂടാക്കാൻ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഇത് ഒരു നീന്തൽക്കുളം ചൂടാക്കുന്നതിനുള്ള ഒരു ഉദാഹരണമാണ് വാട്ടർ ഹീറ്റ് പമ്പിന് മറ്റ് ഉദാഹരണങ്ങളുണ്ട് അതിനാൽ ഇവിടെ നമുക്ക് എന്താണ് ഉള്ളത് അതിനാൽ നിങ്ങൾ ഇത് നോക്കിയാൽ ഇതാണ് വെള്ളം ചൂടാക്കേണ്ട നീന്തൽക്കുളം അതായതു നമുക്ക് ഒരു ചൂടായ നീന്തൽക്കുളം വേണം അത് തണുപ്പുള്ള രാജ്യങ്ങളിൽ സാധാരണയായി ശരീരത്തിന് സുഖപ്രദമായ പരിധി വരെ ചൂടാക്കും നമ്മൾ സംസാരിക്കുന്നത് ഒരു ഇൻഡോർ സ്വിമ്മിംഗ് പൂൾ അല്ലെങ്കിൽ ഒരു ഹോട്ടൽ പൂൾ നെ കുറിച്ചാണ് എന്ന് പറയാം അതിനാൽ നമ്മൾ അത് എങ്ങനെ ചെയ്യാൻ പോകുന്നു നമ്മുടെ അറിവിൽ നിന്ന് നമ്മൾക്ക് അറിയാം എന്തെങ്കിലും ചൂടാക്കണമെങ്കിൽ ഒരു ഹീറ്റ് പമ്പിലെ കണ്ടൻസറിൽ നിന്ന് പുറത്തുവരുന്ന ലിക്വിഡ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ലിക്വിഡ് ഉപയോഗിക്കണം ശരിയല്ലേ അതിനാൽ ആദ്യം നമുക്ക് ഹീറ്റ് പമ്പ് യൂണിറ്റിനെക്കുറിച്ച് സംസാരിക്കാം അത് വേപ്പർ കംപ്രഷൻ യൂണിറ്റാണ് നമ്മൾക്ക് ഇവിടെ കണ്ടൻസർ ഉണ്ട് ഇവിടെ എക്സ്പാൻഷൻ വാൽവ് ഉണ്ട് ഇവിടെ ഇവാപറേറ്റർ യന്ത്രമുണ്ട് ഇവിടെ കംപ്രസ്സറും ഉണ്ട് അതിനാൽ കംപ്രസറിൽ നിന്ന് മുമ്പത്തെപ്പോലെ പുറത്തുവരുന്നത് ഉയർന്ന പ്രഷർ അല്ലെങ്കിൽ ഉയർന്ന പ്രഷറിലും ഉയർന്ന ടെമ്പറേച്ചറിലും ഉള്ള റഫ്രിജറന്റ് വേപ്പർ ആണ് അത് ഒരേ പ്രഷറിൽ കണ്ടൻസേഷൻ ഉള്ള ഒരു ഐസോബാറിക് കണ്ടൻസറുള്ള കണ്ടൻസറിലേക്ക് വരുന്നു അതിനാൽ പുറത്തുവരുന്നത് കണ്ടൻസർ ഉയർന്ന പ്രഷറിൽ കണ്ടൻസ് ചെയ്ത റഫ്രിജറന്റാണ് ഇപ്പോൾ ഈ പ്രക്രിയയിൽ ഇത് ഹീറ്റ് ഉപേക്ഷിക്കുന്നു അത് ഇപ്പോൾ ഇവിടത്തെ ലിക്വിഡ് എടുക്കുന്നു ഇവിടെ അത് വെള്ളമാണ് അതിനാൽ നീന്തൽക്കുളത്തിലെ വെള്ളം കണ്ടൻസറിലൂടെ പമ്പ് ചെയ്യപ്പെടുന്നു അങ്ങനെ അത് പുറത്തുവരുമ്പോൾ അത് ഉയർന്ന ടെമ്പറേച്ചറിലാകും ഈ വെള്ളം തിരികെ പോകുകയും ചെയ്യുന്നു അതിനാൽ സർക്കുലേഷൻ ലൂപ്പ് പൂർത്തിയാകുന്നത് ഇങ്ങനെയാണ് അതിനാൽ വാട്ടർ റിസർവോയർ ഒരു നീന്തൽക്കുളമാണ് അവിടെ നിന്ന് കുറച്ച് ജലശുദ്ധീകരണത്തിന് ശേഷം കണ്ടൻസറിലേക്ക് പമ്പ് ചെയ്യുകയും കണ്ടൻസറിൽ നിന്ന് ഉയർന്ന ടെമ്പറേച്ചറിൽ നീന്തൽക്കുളത്തിലേക്ക് തിരികെ നൽകുകയും ചെയ്യുന്നു അങ്ങനെയാണ് നമ്മൾ നീന്തൽക്കുളത്തിന്റെ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ നിലനിർത്തുന്നത് ഇപ്പോൾ ഇവിടെയുള്ള ഇവാപറേറ്റർ യൂണിറ്റിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ 15C ൽ ഉള്ള വെള്ളം എടുക്കുന്നു അതിനാൽ ശൈത്യകാലത്ത് ആ ടെമ്പറേച്ചറിൽ ഇൻഡോറിൽ ഉള്ള അതേ വെള്ളം അതിനാൽ ഈ 15 ഡിഗ്രി ശരിയായ നീന്തലിന് അത്ര സുഖകരമല്ല അതിനാൽ അതാണ് നമ്മൾ ചൂടാക്കുന്നത് അല്ലെങ്കിൽ കണ്ടൻസറിൽ നിന്ന് ലഭിക്കുന്ന ചൂട് അതാണ് ഇപ്പോൾ ഇവിടെയുള്ള ഇവാപറേറ്ററിൽ നമ്മൾ അതേ വെള്ളം 15oC ൽ ഉപയോഗിക്കുന്നു അത് ഇവാപറേറ്ററിൽ നിന്ന് പുറത്തുവരുമ്പോൾ അത് താഴ്ന്ന ടെമ്പറേച്ചറിൽ ആണ് അത് ഇവിടെ എവിടെയെങ്കിലും ശേഖരിക്കുകയും മറ്റേതെങ്കിലും ആപ്ലിക്കേഷനിൽ നിന്ന് തണുപ്പിച്ച വെള്ളം ഉപയോഗിക്കുകയും ചെയ്യാം അതിനാൽ ഇത് ഒരു വെള്ളം ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് വാട്ടർ ഹീറ്റ് പമ്പും നമ്മൾ കാണിച്ചുതന്ന ഒരു ഉദാഹരണം നീന്തൽക്കുളം ചൂടാക്കാനുള്ളതാണ് ശൈത്യകാലത്ത് നമുക്ക് ലഭ്യമാകുന്ന വെള്ളം 15C താഴ്ന്ന ടെമ്പറേച്ചറിലാണ് ഇത് ഒരു നീന്തൽക്കുളത്തിന് അത്ര സുഖകരമല്ല അതിനാൽ നമ്മൾ ഒരു ഹീറ്റ് പമ്പ് ഉപയോഗിക്കുന്നു അവിടെ 15 ഡിഗ്രിയിൽ ഈ വെള്ളം കണ്ടൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു അതിനാൽ റഫ്രിജറന്റിനെ കണ്ടൻസ് ആകുന്നു അതിനാൽ അത് ചൂട് എടുക്കുന്നു ടെമ്പറേച്ചർ ഉയരുന്നു ചൂടായ വെള്ളം ഇപ്പോൾ ഇവാപറേറ്ററിന്റെ അറ്റത്തുള്ള നീന്തൽക്കുളത്തിലേക്ക് നൽകുന്നു പക്ഷെ അതിൽ നിന്നു പുറത്തു വരുന്നത് തണുത്ത വെള്ളമാണ് പക്ഷേ ആ തണുത്ത വെള്ളത്തിന് ചില ആപ്ലിക്കേഷനുകൾ ഉണ്ട് അത് അതിനായി ഉപയോഗിക്കാം അതിനാൽ നമ്മൾ വാട്ടർ ഹീറ്റ് പമ്പ്നെ കുറിച് ചർച്ച ചെയ്തു പ്രോസസ്സ് ഹീറ്റ് റിക്കവറിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്ന അത്തരം ഒരു ഉദാഹരണം കൂടി നോക്കാം ഈ വാട്ടർ വാട്ടർ ഹീറ്റ് പമ്പ് നമ്മൾ എടുക്കാൻ പോകുന്ന ഉദാഹരണം ഒരു യൂണിറ്റ് ടെംപ്ലിഫയർ ആണ് ഇത് ആദ്യം വേസ്റ്റ് ഹൌസിൽ ആണ് സ്ഥാപിച്ചത് അതിനാൽ വേസ്റ്റിംഗ് ഹൌസ് ടെംപ്ലിഫയർ ഹീറ്റ് പമ്പ് യൂണിറ്റ് ചൂടാക്കൽ പ്രക്രിയയിൽ പുനരുപയോഗത്തിനായി വേസ്റ്റ് വാട്ടർ നിന്ന് ചൂട് വീണ്ടെടുക്കുന്നു അതിനാൽ വീണ്ടും സമാനമായ ആശയം എന്നാൽ ഈ സാഹചര്യത്തിൽ ഇത് ഒരു വാട്ടർ വാട്ടർ ഹീറ്റ് പമ്പ് ആണ് നമ്മൾ മുമ്പ് കണ്ടത് തീർച്ചയായും അത് വെള്ളമായിരുന്നു പക്ഷേ ഉപയോഗിച്ചിരുന്ന റഫ്രിജറന്റ് ഇപ്പോഴും ഒരു റഫ്രിജറന്റ് ആയിരുന്നു അതിനാൽ അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു ലിക്വിഡ് വാട്ടർ ഹീറ്റ് പമ്പ് ആയിരുന്നു ക്ഷമിക്കണംനീന്തൽക്കുളം ഒരു വാട്ടർ വാട്ടർ ഹീറ്റ് പമ്പ് ആണെന്ന് ഞാൻ തെറ്റായി പറഞ്ഞതാണ് അത് വാട്ടർ വാട്ടർ എന്ന് പറയൻ കാരണം കണ്ടൻസറിലും റഫ്രിജറേറ്ററിലും ലിക്വിഡ് ആയി ഉപയോഗിക്കുന്നത് വെള്ളം ആയതുകൊണ്ടാണ് പക്ഷേ അപ്പോഴും റഫ്രിജറന്റിലൂടെ ഒഴുകുന്ന ലിക്വിഡ് വേപ്പർ കംപ്രഷൻ ലൂപ്പിലൂടെ ഒഴുകുന്നത് അപ്പോഴും ഒരു റഫ്രിജറന്റായിരുന്നു ഈ സാഹചര്യത്തിൽ എന്നിരുന്നാലും രണ്ട് ലിക്വിഡുകളും വെള്ളമാണ് നമ്മൾ കാണുന്നതുപോലെ ഇത് 2 ഘട്ട കംപ്രഷൻ ഉപയോഗിക്കുന്നു അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു സ്കീമാറ്റിക് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നു അതിനാൽ നമുക്ക് വേസ്റ്റ് വാമ്മ് വാട്ടർ ഉണ്ട് അത് 32C ൽ ചൂടാണ് പക്ഷേ വേണ്ടത്ര നല്ലതല്ല 32 ഡിഗ്രി താഴ്ന്ന ടെമ്പറേച്ചറാണ് അത് വളരെ ഉയർന്ന ഗ്രേഡ് തെർമൽ ഊർജ്ജമല്ല ശരിയല്ലേ അതിനാൽ ഇത് ഒരു ഇവാപറേറ്റർ നോക്കുകയാണെകിൽ അത് 2 ഘട്ട കംപ്രഷൻ ആണ് പിന്നെ സംഭവിക്കുന്നത് കണ്ടൻസർ യൂണിറ്റിലാണ് നിങ്ങൾക്ക് വെള്ളം വരുന്നു തുടർന്ന് ചൂടുവെള്ളം നിങ്ങൾക്ക് 82oC ൽ ലഭിക്കും തുടർന്ന് നിങ്ങൾക്ക് ഒരു ഫ്ലാഷ് ഇന്റർകൂളർ ഉണ്ട് നിങ്ങൾക്ക് 2 സ്റ്റേജ് കംപ്രഷൻ ഉള്ളതിനാൽ 2 എക്സ്പാൻഷൻ വാൽവുകളും മറ്റും ഉണ്ട് അതിനാൽ നമുക്ക് ഈ ചക്രം കുറച്ചുകൂടി ശ്രദ്ധയോടെ നോക്കാം നമ്മുടെ അറിവ് ഉപയോഗിച്ച് ഒരു PH ഡയഗ്രം അല്ലെങ്കിൽ TS ഡയഗ്രം വരയ്ക്കാൻ ശ്രമിക്കുക അതിനാൽ നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് ടെംപ്ലിഫയർ ഹീറ്റ് പമ്പ് ആണെന്ന് ഞാൻ ആദ്യം ഇവിടെ എഴുതട്ടെ ഇതൊരു ടെംപ്ലിഫയർ ഹീറ്റ് പമ്പാണ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കണ്ടതിനെ അടിസ്ഥാനമാക്കിയുള്ള തെർമോഡൈനാമിക് സൈക്കിൾ നോക്കാൻ പോകുകയാണ് അതിനാൽ ഞാൻ പേപ്പറിനും സ്ക്രീനിനുമിടയിൽ സ്വിച്ച് ചെയ്യാൻ പോകുന്നു അതിനാൽ നമുക്ക് 2 നെ പരസ്പരം ബന്ധിപ്പിച്ച് കാണാൻ ശ്രമിക്കാം അതിനാൽ നമുക്ക് ഒരിക്കൽ കൂടി സ്ക്രീനിലേക്ക് നോക്കി കുറച്ച് നേരം സൈക്കിൾ നോക്കാം അതിനാൽ നമ്മൾ ഇപ്പോൾ ടെംപ്ലിഫയർ യൂണിറ്റിന്റെ PH ഡയഗ്രം വരയ്ക്കാൻ ചെയ്യാൻ പോക്കുകയാണ് അതിനാൽ ഇത് പ്രഷർ ഇത് വേപ്പർ ഡോമ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്ന എൻതാൽപ്പിയാണ് നമുക്കറിയാവുന്നതുപോലെ ഫോട്ടോ ഡയഗ്രാമിൽ ഇത് ഇങ്ങനെയാണ് കാണപ്പെടുന്നത് നമ്മൾ ഇത് ഇതുപോലെ സൂക്ഷിക്കും എന്നിട്ട് നമുക്ക് ശ്രമിച്ച് നോക്കാം ഈ ph ഡയഗ്രാമിലെ വ്യത്യസ്ത പോയിന്റുകൾ എന്തൊക്കെയാണ് അതിനാൽ ഞാൻ ആദ്യം സൈക്കിൾ വരയ്ക്കട്ടെ തുടർന്ന് നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് പോകാം അതിനാൽ സൈക്കിൾ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് പോയിന്റുകൾക്ക് എങ്ങനെ പേരിടാം എന്ന് നോക്കാം ഇപ്പോൾ ഇത് പോയിന്റ് നമ്പർ 1 ആണ് അതിനാൽ ഇവിടെ സ്ക്രീനിൽ നോക്കിയാൽ പോയിന്റ് നമ്പർ 1 ഇവാപറേറ്ററിന്റെ എക്സിറ്റ് ആണ് തുടർന്ന് പോയിന്റ് നമ്പർ 2 എന്നത് ലോ പ്രഷർ കണ്ടൻസറിന്റെ എക്സിറ്റ് ആണ് അതായത് ലോ പ്രഷർ കംപ്രസ്സർ പോയിന്റ് നമ്പർ 4 ഉയർന്ന പ്രഷറുള്ള കംപ്രസ്സറിന്റെ എക്സിറ്റ് ആണ് അതിനാൽ നമുക്ക് ആ പോയിന്റുകൾ 2 എന്ന് പേരിടാം ക്ഷമിക്കണം ഉയർന്ന പ്രഷറുള്ള കംപ്രസ്സറിന്റെ ഇൻലെറ്റ് 4 ആണ് ഉയർന്ന പ്രഷറുള്ള കംപ്രസ്സറിന്റെ എക്സിറ്റ് 5 ആണ് അതിനാൽ നമുക്ക് ഇവിടെ വീണ്ടും നോക്കി നമ്മൾ ഇത് ശരിയായി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കാം 1 2 4 5 എന്താണ് 3 3 ഫ്ലാഷ് ഇന്റർകൂളറിന്റെ എക്സിറ്റ് ആണ് അതിനാൽ നമ്മൾ ഇവിടെ 3 എഴുതാൻ പോകുന്നു അതായത് ഈ പോയിന്റ് ബാക്കിയുള്ളത് ലളിതമാണ് 5 തുടർന്ന് 6 ഈ പോയിന്റ് 7 ഇവിടെയും 8 ഇവിടെയും 9 ഇവിടെയും ആയിരിക്കും അതിനാൽ നമുക്ക് വീണ്ടും പരസ്പരം ബന്ധപ്പെടുത്താം 6 എന്നത് കണ്ടൻസറിന്റെ എക്സിറ്റ് ആയിരിക്കും അതാണ് ഇവിടെ കാണുന്നത് 7 എന്നത് ആദ്യത്തെ എക്സ്പാൻഷൻ വാൽവിന്റെ എക്സിറ്റ് ആണ് പിന്നെ 8 എന്നത് രണ്ടാമത്തെ എക്സ്പാൻഷൻ വാൽവിലേക്കുള്ള പ്രവേശനമാണ് 9 രണ്ടാമത്തെ എക്സ്പാൻഷൻ വാൽവിന്റെ എക്സിറ്റ് ആണ് അതിനാൽ 6 7 8 9 അതാണ് നമ്മൾ ഇവിടെ 6 7 8 ഉം 9 ഉം കണ്ടത് അതിനാൽ ഒരു PH ഡയഗ്രാമിൽ പ്രതിനിധീകരിക്കുന്ന ടെംപ്ലിഫയർ യൂണിറ്റ് ആണ് കാണുന്നത് നമുക്ക് ഇവിടെ ആര്രൌസ് ഇടാം അതിനാൽ ഇതിലൂടെ കടന്നുപോകുന്ന സൈക്കിൾ അല്ലെങ്കിൽ റഫ്രിജറന്റ് സൈക്കിൾ ഇതാണ് ശരി അതിനാൽ 2 ഘട്ട കംപ്രഷൻ ആവശ്യമാണ് കാരണം ടെംപ്ലിഫയർ യൂണിറ്റിൽ നമ്മുടെ പക്കലുള്ള ടെമ്പറേച്ചർ ഇവാപറേറ്റാറിലാണ് അത് ഏകദേശം 35 ഡിഗ്രിയാണെന്നും ഇവിടെ ടെമ്പറേച്ചർ ഏകദേശം 90 ഡിഗ്രിയാണെന്നും ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ ഇത് 35 അല്ല ഇത് 30 ആണ് കാരണം ഇവിടെയുള്ള വെള്ളത്തിന്റെ ഇൻലെറ്റ് 32 എക്സിറ്റ് ഏകദേശം 27 ആണ് ക്ഷമിക്കണം ഇത് 25 ഡിഗ്രിയോ അതിൽ കുറവോ ആയിരിക്കും അതിനാൽ വെള്ളം 32 ന് പ്രവേശിക്കുകയും 27 ന് പുറപ്പെടുകയും ചെയ്യുന്നു ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതിനാൽ ഇത് ഇങ്ങനെയാണ് എല്ലാം ശരിയാണ് അതിനാൽ ഒരിക്കൽ കൂടി ഇത് 25 ഡിഗ്രി 25 മുതൽ 90 വരെ ഒരു വലിയ കുതിച്ചുചാട്ടമാണ് അതിനാൽ നമ്മൾക്ക് 2 ഘട്ട കംപ്രഷൻ ആവശ്യമാണ് ഒരു ഘട്ടം കംപ്രഷൻ ബുദ്ധിമുട്ടായിരിക്കും അതിനാൽ ഒരിക്കൽ കൂടി ഞാൻ ഇവിടെ ഒരു നിമിഷം ചെലവഴിക്കാനും ഞാൻ പഠിച്ച കാര്യങ്ങൾക്ക് എന്റെ മുൻ അധ്യാപകനോടുള്ള നന്ദിരേഖപ്പെടുത്താനും ഞാൻ ആഗ്രഹിക്കുന്നു ഈ ചിത്രത്തിലും മുമ്പത്തെ ചിത്രത്തിലും കാണുന്നത് പോലെ പ്രൊഫസർ പി നാഗിന്റെ പ്രഭാഷണ കുറിപ്പുകളാണ് ഞാൻ എഴുതിയത് ഞാൻ ഖരഗ്പൂരിലെ ഐഐടിയിൽ ബാച്ചിലർ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾbachelor student at IIT Kharagpur പ്രൊഫസർ പികെ നാഗ് എന്റെ അധ്യാപകനായിരുന്നു ഈ വിഷയം വേസ്റ്റ് ഹീറ്റ് റിക്കവറിയെക്കുറിച്ച് ഞാൻ ആദ്യം പഠിച്ചത് അദ്ദേഹത്തിൽ നിന്നാണ് അതിനാൽ പ്രൊഫസർ പി നാഗിനോട് നന്ദി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പമില്ല പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങൾ ഇതുവരെ എന്നിൽ ഉണ്ടായിരുന്നു ഒരുപക്ഷേ എന്നേക്കും എന്നോടൊപ്പം ഉണ്ടായിരിക്കും അതിനാൽ എന്റെ ഗുരുവിനോട് ആദരവ് പ്രകടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചു ശരി അതിനാൽ ഇത് ഒരു ലിക്വിഡ് ലിക്വിഡ് ഹീറ്റ് പമ്പ് ആയതിനാൽ ഉപയോഗിക്കാൻ കഴിയുന്ന ടെംപ്ലിഫയർ യൂണിറ്റായിരുന്നു ഇത് ഇവിടെ ഇത് വാട്ടർ വാട്ടർ ഹീറ്റ് പമ്പ് ആണ് ഇതാണ് വേസ്റ്റ് ഹൌസിൽ ഉപയോഗിക്കുന്നത് ഉയർന്ന ഊഷ്മാവിൽ വേസ്റ്റ് വാട്ടർ മറ്റേതെങ്കിലും ആപ്ലിക്കേഷന് ഉപയോഗിക്കുന്നു നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷനിലേക്ക് പോകാം അതിനാൽ ഈ ഹീറ്റ് പമ്പിന് ലോകമെമ്പാടും വിവിധ കോൺഫിഗറേഷനുകളിൽ ഉപയോഗിച്ചിട്ടുള്ള ധാരാളം ആപ്ലിക്കേഷനുകൾ ഉണ്ട് അതിനാൽ ഞാൻ ഇവിടെ ചില ആപ്ലിക്കേഷനുകൾ കാണിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് ആപ്ലിക്കേഷനുകളുടെ എണ്ണം ശരിക്കും അനന്തമാണ് അതിനാൽ സ്പേസ് ഹീറ്റിംഗിനായി സ്പേസ് ഹീറ്റ് പമ്പിനും മറ്റ് ചില ആപ്ലിക്കേഷനുകൾക്കായി ശീതീകരിച്ച ലിക്വിഡിനും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണം കൂടി ഞാൻ കാണിക്കാൻ പോകുന്നുവെന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുക അതിനാൽ ഇത് ഒരു ഹീറ്റ് പമ്പ് ഉപയോഗിച്ച് ഇൻഡസ്ട്രിയൽ പ്രോസസ്സ് ഹെറ്റിംഗ് ചെയുന്ന ഉദാഹരണമാണ് ചൂടാക്കുന്നത് മാത്രമല്ല തണുപ്പിക്കൽ കൂടിയാണ് ഞാൻ പറയാൻ പോകുന്ന ഉദാഹരണം ഒരു ഇൻജക്ഷൻ മോൾഡിംഗ് പ്ലാന്റാണ് ആണ് ഇഞ്ചക്ഷൻ മോൾഡിംഗ് ഞാൻ ഇത് MOLD ആയി എഴുതുന്നു പലരും ഇത് ഒരു MOULD ആയി എഴുതുന്നു അത് അമേരിക്കൻ ബ്രിട്ടീഷ് സ്പെല്ലിംഗുകൾ ആണ് അതിനാൽ ഇഞ്ചക്ഷൻ മോൾഡിംഗ് പ്രാഥമികമായി ചിലപ്പോഴൊക്കെ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ചിലപ്പോൾ മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ ഉരുകിയ ലോഹം ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത് അതിനാൽ നിങ്ങൾ ഓർമ്മിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഇഞ്ചക്ഷൻ മോൾഡിംഗ് പ്രക്രിയയിൽ അത് കാസ്റ്റുചെയ്തതിന് ശേഷം നിങ്ങൾ തണുപ്പിക്കേണ്ടതുണ്ട് അച്ചിൽ നിങ്ങൾ അതിന് ഫോം എടുക്കാനോ ശരിയായ ആകൃതി നൽകാനോ അത് തണുപ്പിക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾക്ക് തണുപ്പ് ആവശ്യമാണ് അധികവും ആവശ്യമാണ് പ്രത്യേകിച്ച് ശൈത്യകാലത്ത് അല്ലെങ്കിൽ തണുത്ത രാജ്യങ്ങളിൽ ഇത് ഒരു ഫാക്ടറിയിലാണ് ചെയ്യുന്നത് അവിടെ നിങ്ങൾ എർഗണോമിക് അവസ്ഥകൾ നിലനിർത്തേണ്ടതുണ്ട് അതിനാൽ ഫാക്ടറിക്കോ ആ പ്ലാന്റിനോ വേണ്ടി നിങ്ങൾക്ക് സ്പേസ് ഹീറ്റിംഗ് ആവശ്യമാണ് അപ്പോൾ നമുക്ക് അത് എങ്ങനെ ചെയ്യാൻ കഴിയും അതിനാൽ ഹീറ്റ് പമ്പ് യഥാർത്ഥത്തിൽ ഒരു അത്ഭുതകരമായ പ്രയോഗമാണ് അല്ലെങ്കിൽ ഈ രണ്ട് ലക്ഷ്യങ്ങളും ഒരേസമയം കൈവരിക്കുന്നതിനോ നേടുന്നതിനോ ഉള്ള ഒരു അത്ഭുതകരമായ സാങ്കേതികതയാണ് അതിനാൽ ഇൻജെക്ഷൻ മോൾഡിംങ്ങിൽ അച്ചുകൾ തണുപ്പിക്കാൻ ശീതീകരിച്ച വെള്ളം ആവശ്യമാണ് അതിനാൽ കമ്പോണേന്റ്സിൽ പ്ലാസ്റ്റിക്കുകൾ സോളിഡീകരിക്കുക ചെയ്യും മാത്രമല്ല കംഫർട്ട് അവസ്ഥ നിലനിർത്താൻ ഫാക്ടറി ഫ്ലോർ ചൂടാക്കൽ ആവശ്യമണ് അതിനാൽ ഇതാണ് പ്രധാനമായും സംഭവിക്കുന്നത് എന്നിരുന്നാലും നമ്മൾ ഇത് എങ്ങനെ ചെയ്യാൻ പോകുന്നുവെന്ന് എല്ലാവർക്കും ഊഹിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു അതിനാൽ നമുക്ക് ആദ്യം വേപ്പർ കംപ്രഷൻ യൂണിറ്റ് ഹീറ്റ് പമ്പ് ഘടകങ്ങൾ വരയ്ക്കാം തുടർന്ന് നമ്മൾ എന്തുചെയ്യുമെന്ന് നോക്കാം അതിനാൽ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇത് ഇവാപറേറ്റരാണെനും ഇത് കണ്ടൻസറാണെന്നും ഇത് എന്റെ എക്സ്പെന്ഷൻ വാൽവാണെന്നും ഇത് എന്റെ കംപ്രസർ സി ആണെന്നും പറയാം അതിനാൽ ഇവാപറേറ്റർ എക്സിറ്റ് നിന്നു കംപ്രസ്സറിലേക്ക് വരുകയും അത് കണ്ടൻസറിലേക്ക് വരുന്നത് റഫ്രിജറന്റിനെ കണ്ടൻസ് ചെയുകയും തുടർന്ന് എക്സ്പാൻഷൻ വാൽവിലൂടെ ഒഴുകുകയും ഇവാപറേറ്ററിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇത് എന്റെ യൂണിറ്റാണ് എന്നതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല അതിനാൽ ഇത് എന്റെ എക്സ്പ്പാൻഷൻ വാൽവ് ആണ് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇത് എന്റെ ഫാക്ടറി ഫ്ലോർ ആണ് എന്റെ ഇഞ്ചക്ഷൻ മൌൾഡ് ഞാൻ ഇവിടെ വരയ്ക്കും അതിനാൽ ഇഞ്ചക്ഷൻ മൌൾഡ് തണുപ്പിക്കാനും ഫാക്ടറി ആവശ്യത്തിന് ചൂടാക്കാനും എന്താണ് വേണ്ടത് ഞാൻ ഇതിനു ചുറ്റും ഒരു അതിർത്തി വെക്കട്ടെ അതിനാൽ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ വാട്ടർ ടാങ്കിന് മുകളിൽ കുറച്ച് കൂളിംഗ് വാട്ടർ ടാങ്ക് ഉണ്ട് ഞാൻ ഈ ലിക്വിഡ് ഇവാപറേറ്ററിലേക്ക് ഒഴുക്കും തുടർന്ന് ഇവാപറേറ്ററിൽ നിന്ന് പുറത്തുവരുന്നത് തണുത്ത വെള്ളമായിരിക്കും അത് ഇൻജെക്ഷൻ മൌൾഡിലേക്കു പോകുന്നു തുടർന്ന് ഇൻജെക്ഷൻ മൌൾഡിൽ നിന്ന് പുറത്തുവരുന്നത് ചൂടായ വെള്ളത്തിലോ അല്ലെങ്കിൽ ഊഷ്മാവിലോ ഉയർന്ന താപനിലയിലോ ഉള്ള സാധാരണ വെള്ളത്തിലോ ആണ് പിന്നെ കണ്ടൻസറിലൂടെ ഞാൻ എന്ത് ചെയ്യും ഞാൻ മറ്റൊരു മഷി ഉപയോഗിക്കട്ടെ ഞാൻ വായു അല്ലെങ്കിൽ വെള്ളം കടക്കാൻ പോകുകയാണ് തുടർന്ന് ഇത് ഉയർന്ന ടെമ്പറേച്ചറിൽ പുറത്തുവരുന്നു ഇത് ചൂടാക്കാൻ ഉപയോഗിക്കാം ചൂടായ വായു ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ചൂടുവെള്ളമാണെങ്കിലും ഫാക്ടറിയുടെ തറയിലേക്ക് നേരിട്ട് നൽകാം അതിനാൽ വെള്ളമാകാം അല്ലെങ്കിൽ വായു ആകാം എന്ന് നമ്മുക്ക് എഴുതാം ഇത് നേരിട്ട് വായു ആണെങ്കിൽ ഇത് ചൂടാക്കിയ വെള്ളമോ വായുവോ ആണ് ഇത് ചൂടാക്കിയ വെള്ളമാണെങ്കിൽ നമ്മളുടെ പക്കൽ ഈ റൂം ഹീറ്ററുകൾ ചൂടാക്കിയ വെള്ളമോ ചൂടുവെള്ളമോ സിർക്കുലറ്റ് ചെയുന്നു അതാണ് നമ്മൾ ഫാക്ടറി തറയിൽ ഉപയോഗിക്കാൻ പോകുന്നത് ഇത് വായു ആണെങ്കിൽ തീർച്ചയായും ഇത് ഇതിനകം ചൂടുള്ള വായു ആണ് അത് നേരിട്ട് ഫാക്ടറിയിലേക്ക് നൽകാം അതിനാൽ ഒരു ഇഞ്ചക്ഷൻ മോൾഡിംഗ് പ്ലാന്റിൽഒരു ഹീറ്റ് പമ്പ് ഉപയോഗിക്കുന്നതിനുള്ള ഒരു ഉദാഹരണമാണിത് ഇപ്പോൾ ഉയർന്ന ടെമ്പറേച്ചരിലുള്ള കണ്ടൻസറിൽ നിന്നുള്ള ഔട്ട്പുട്ട് ഓർഗാനിക് അല്ലെങ്കിൽ കംഫർട്ട് അവസ്ഥ നിലനിർത്താൻ ഫാക്ടറി ഫ്ലോ ചൂടാക്കാനും ഉപയോഗികാം സാധാരണയായി കണ്ടൻസറിൽ നിന്നുള്ള ഔട്ട്പുട്ടായ ശീതീകരിച്ച വെള്ളം ഇഞ്ചക്ഷൻ മൌൾഡിൽ ഉടനീളം വിതരണം ചെയ്ത് ഉപയോഗിക്കാനും കഴിയും അതിനാൽ അത് മോൾഡ് തണുപ്പിക്കുകയും പ്ലാസ്റ്റിക്കിനെ ദൃഢമാക്കുകയും ചെയ്യുന്നു അതിനാൽ നമ്മൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നതെന്തും യഥാർത്ഥത്തിൽ രൂപം പ്രാപിക്കുകയും അവയുടെ ആകൃതിയിലും രൂപത്തിലും പുറത്തുവരുകയും ചെയ്യുന്നു അതിനാൽ ഈ ഉദാഹരണത്തോടെ നമ്മൾ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു അടുത്തതിൽ നമ്മൾക്ക് ഇവിടെ നിന്ന് തുടങ്ങാം ഒരുപക്ഷേ ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ കൂടി നമുക്ക് നോക്കാം